എന്താണ് ഇലക്ട്രിക്ക് ഫീൽഡ് എങ്ങിനെയാണ് കൂളംബ് ഫോഴ്സ്കളും വിവിധ ചാർജ്ജുകളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് നാം പഠിച്ചത് ഒരു ചാർജ് q1 ഉം മറ്റൊരു ചാർജ് q2 വും r12 അകലത്തിൽ സ്ഥിതിചെയ്യുമ്പോൾ 1 ലെ ഫോഴ്സ് 14πϵ0r122 x q1q2r12 ആണ് ഇവിടെ ഒരു മൈനസ് ചിഹ്നത്തോട് കൂടി യൂണിറ്റ് വെക്ടർ ഉണ്ട് അല്ലെങ്കിൽ നാം കൂടുതൽ ലോഡ് ചെയ്യുകയാണെങ്കിൽ 14πϵ0r123 x q1q2r21 ഈ r 2 മുതൽ 1 വരെ ആണ് അങ്ങിനെ ഞാൻ എല്ലാ ആകർഷണ വികർഷണ ഫോഴ്സ് കളെയും കണക്കിലെടുക്കുന്നു ഇനി നാം പഠിച്ച മറ്റൊരു സംഗതി F ബലത്തിന് 1r2 നോടുള്ള വിധേയത്വത്തെ എങ്ങിനെ പരീക്ഷണത്തിലൂടെ തെളിയിക്കാം എന്നതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ഇലക്ട്രിക്ക് ഫീൽഡ് എന്ന പുതിയ ആശയത്തെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് സാഹചര്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡും കൂളംബ് ബലവും നേരിട്ട് രണ്ടു ചാർജുകൾക്കിടയിലാണ് ഇത് ചാർജുകൾ ക്കിടയിലുള്ള ഫോഴ്സിന്റെ കാര്യത്തിലും അങ്ങിനെ തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി അല്പം സംസാരിക്കാം നമുക്ക് ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷനെ നോക്കാം ഫോഴ്സ് വളരെ അകലെയുള്ള ഒരു ചാർജ് q വിന്മേൽ ചെലുത്തുന്നു കഴിഞ്ഞ തവണ ഈ ഫോഴ്സ് dvr r3 ന്റെ ഇന്റഗ്രേഷൻ മൂലമാണ് ലഭിച്ചത് ചാർജ് ഡിസ്ട്രിബ്യുഷൻ ρ r q വിൽ പ്രവർത്തിക്കുമ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തെന്നാൽ നമുക്ക് ഉള്ളിലുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളപ്പോൾ ഇത്റോ ആർ പ്രൈം ആണെന്ന് വിചാരിക്കുക കൂടാതെ ഞാൻ അകലെയുള്ള q എന്ന ചാർജിൻമേലുള്ള ഫോഴ്സ് കണക്കാക്കുകയാണ് നമുക്ക് ഒരു കോ ഓർഡിനേറ്റ് സിസ്റ്റം തയാറാക്കാം ഇത് വെക്ടർ r ഉം ഇത് വെക്ടർ r ഉം ആണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം r r ആണ് അപ്പോൾ ഫോഴ്സ് F എന്നത് 14πϵ0 ആണ് ഈ ചാർജ് q ആയതിനാൽ ഞാൻ ഇവിടെ ഒരു q എഴുതാം വോളിയം ഇന്റഗ്രൽ റോ r r r|r r3| ഇവിടെ യഥാർത്ഥത്തിൽ 1r സ്ക്വയർ അല്ലെങ്കിൽ 1 ഭാഗം ചാജുകൾ തമ്മിലുള്ള അകലത്തിന്റെ സ്ക്വയർ ആണ് ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ ചെറിയ വിന്യാസത്തിന്റെയും ഫോഴ്സ് കണക്കാക്കുകയും എല്ലാം കൂടി കൂട്ടുകയും ചെയ്യുന്നു ഇത് നാം നേരത്തെ പഠിച്ച സൂപ്പർ പൊസിഷൻ തത്വം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എല്ലായെപ്പോഴും ഫോഴ്സ് കണക്കാക്കുന്നതിനായി മറ്റൊരു ചാർജിന്റെ ആവശ്യമുണ്ടോ അതോ ചാർജ് q വില ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്ന വിധത്തിൽ ചാർജ് ഡിസ്ട്രിബ്യുഷൻ സ്വന്തമായി ഈ സ്ഥലത്തു എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ നമുക്കിത് മനസിലാക്കാം ഈ ചാർജ് ഡിസ്ട്രിബ്യുഷനെക്കുറിച്ച് നാം ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് ഇവിടെ അതിനു ചുറ്റും സ്വന്തമായി ഒരു ഫീൽഡ് സൃഷ്ടിക്കുന്നു ഇതിനർത്ഥം ഇത് ചുറ്റുമുള്ള എന്തോ വ്യത്യാസപ്പെടുത്തുന്നു എന്നാണ് ഇത് ചുറ്റും വളരെയധികം രേഖകൾ സൃഷ്ടിക്കുന്നു അതായത് ഞാൻ എവിടെയെങ്കിലും ഒരു ചാർജ് വയ്ക്കുകയാണെങ്കിൽ ഇത് കാരണം ഞാൻ എന്തിനെയാണോ സൃഷ്ടിക്കുന്നത് അതിനെ ഞാൻ ഇലക്ട്രിക്ക് ഫീൽഡ് എന്ന് വിളിക്കുന്നു ഇതിൽ ഒരു ഫോഴ്സ് ചെലുത്തപ്പെടുന്നു അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യുഷൻ സ്വയം തനിക്കു ചുറ്റും ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് സൃഷ്ടിക്കുന്നു ഞാൻ ഇതിനെ r വെക്റ്ററിൽ ഉള്ള E എന്ന അടയാളപ്പെടുത്തുന്നു ചാർജ് q ഈ മേഖലയിൽ വയ്ക്കുമ്പോൾ അതിനുമേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് qEr ആണ് അപ്പോൾ ശ്രദ്ധിക്കുക നാം പറയുന്നതെന്തെന്നാൽ അവിടെ ചാർജ് ഇല്ലെങ്കിൽപ്പോലും ആദ്യത്തെ ചാർജ് ഡിസ്ട്രിബ്യുഷൻ സൃഷ്ടിക്കുന്ന ഫീൽഡ് കാരണം ഫീൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ പോയിന്റുകളിലും ഒരു പ്രത്യേക ദിശയിലുള്ള ഒരു വെക്ടർ ഉണ്ട് കൂടാതെ ഞാൻ ഇതിനു പുറമെ ഒരു ചാർജ് വയ്ക്കുമ്പോൾ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു ഇപ്പോൾ q വിലെ ഫോഴ്സ് കണക്കാക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ മേഖലയെക്കുറിച്ചോ ഈ ചാർജുകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അങ്ങിനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഫീൽഡ് എന്ന ആശയം കൊണ്ട് വരുന്നത് ഇത് യാഥാർത്ഥമാണോ ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ സ്വയം തനിക്ക് ചുറ്റും ഒരു വൈദ്യുത ഫീൽഡ് സൃഷ്ടിക്കുന്നുവോ എന്നെനിക്ക് യഥാർത്ഥത്തിൽ പരിശോധിക്കുവാൻ സാധിക്കുമോ ഇത് സ്വയം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വ്യാപാരിക്കുവാൻ കഴിവുള്ള യഥാർത്ഥമായ ഒന്നാണെന്ന് പിന്നീട് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് യഥാര്ഥത്തിലുള്ളതാണ് യഥാർത്ഥ മൂലകമാണ് അതിനാൽ ഇപ്പോൾ മുതൽ നാം ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലം സൃഷ്ടിക്കപ്പെടുന്ന ഇലക്ട്രിക്ക് ഫീൽഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകയാണ് എന്തെന്നാൽ യാഥാർത്ഥമായുള്ള ഒരു ഭൌതിക അളവ് അങ്ങിനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വിവരം കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരു ചാർജിൽ ഫോഴ്സ് പ്രയോഗിക്കുക എന്നത് ആണ് എന്ന് നമുക്ക് പിന്നീട് കാണാം ഈ ഇലക്ട്രിക്ക് ഫീല്ഡിനെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിക്കുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് പോലെ r ൽ ഉള്ള ഏതെങ്കിലും ഫീൽഡ് E എടുത്താൽ ചാർജ് q വിന്മേലുള്ള ഫോഴ്സ് q ഗുണം Er ആയിരിക്കും ഇതിനർത്ഥം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ നിർവചനം തന്നെ ഇത് യൂണിറ്റ് ചാർജിൻമേലുള്ള ഫോഴ്സ് ആണ് ദിശയും അളവും ഒരു യൂണിറ്റ് ചാർജിൻമേലുള്ളതാണ് അപ്പോൾ ഇത് ഗണിത ശാസ്ത്രപരമായി നിർവചിച്ചാൽ ഇത് ഒരു താത്വികമായ മുന്നേറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ q സ്വയം ചുറ്റും ഒരു ഫീൽഡ് സൃഷ്ടിക്കുന്നു എന്നാണ് അതിനെ നാം വൈദ്യുത ഫീൽഡ് എന്ന് വിളിക്കുന്നു കൂടാതെ ഇതിന്റെ ദിശയും അളവും യൂണിറ്റ് ചാർജിൻമേലുള്ള ഫോഴ്സ് കാരണം നൽകപ്പെടുന്നു ഈ ചാർജ് ഡിസ്ട്രിബ്യുഷൻ ഉള്ളപ്പോൾ നിർവചനപ്രകാരം പോയിന്റ് r ലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് എന്നത് 1നാല് പൈ എപ്സിലോൺ 0 ഗുണം ഈ വ്യാപ്തത്തിന്മേലുള്ള ഇന്റഗ്രൽ r|r r|3 ഗുണം r r' ആയിരിക്കും അപ്പോൾ നോക്കൂ ഇത് കേന്ദ്രമായി എടുത്ത് പോയിന്റ് r ലെ ഫീൽഡ് കണക്കാക്കുകയാണ് നാം ചെയ്യുന്നത് ഈ ചാർജ് ഡിസ്ട്രിബ്യുഷനും ഇവിടെയുള്ള ഈ ചെറിയ വോളിയമും കാരണം r r അകലത്തിലാണ് ഇലക്ട്രിക്ക് ഫീൽഡ് ലഭിക്കുന്നത് ഇത് 14π0dVρrr rr r3 ആണ് കൂടാതെ ഈ ആകെയുള്ള വൈദ്യുതഫീൽഡ് കാരണം ഞാൻ ഇതെല്ലം ഇന്റഗ്രേറ്റ് ചെയ്തു സൂപ്പർ പൊസിഷൻ തത്വപ്രകാരം ഈ ഇലക്ട്രിക്ക് ഫീൽഡ് ലഭിക്കുന്നു ഉദാഹരണമായി ഞാൻ ഏതെങ്കിലും പോയിന്റ് ചാർജ് എടുക്കുന്നു ഇത് ഏതെങ്കിലും ദിശ വെക്ടർ R ൽ ആണ് അപ്പോൾ മറ്റേതെങ്കിലും സ്ഥാനം r ൽ ഉള്ള വൈദ്യുത ഫീൽഡ് E എന്നത് 14π0 ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ പ്രഭാവം ചെലുത്തും ഇത് r R ആയിരിക്കും qȓ Ȓ3 ഗുണം ȓ Ȓ അപ്പോൾ ഇത് ഇങ്ങിനെയാണ് കാണപ്പെടാൻ പോകുന്നത് ഞാൻ ഇതിനെ വേറെ നിറത്തിൽ വരയ്ക്കാം ഈ വരകളെല്ലാം മൂന്നു വരകൾ പോയിന്റ് ചാർജിൽ നിന്നും അകലേക്ക് പോകുന്നു ഞാൻ ഇങ്ങിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഫീൽഡ് എല്ലായിടത്തും പരന്നിരിക്കുന്നു എന്ന് കാണുക എന്തെന്നാൽ ഒരു യൂണിറ്റ് ചാർജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജോ എടുത്താൽ പോയിന്റ് ചാർജിന്റെ ചുറ്റും എവിടെയായാലും ഫോഴ്സ് അനുഭവപ്പെടുന്നു അതിനാൽ നിർവചനപ്രകാരം ഫീൽഡ് എല്ലായിടത്തും പരന്നിരിക്കുന്നു പക്ഷെ ആ ഫീൽഡ് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചല്ല നമുക്ക് ഒരു ഫോഴ്സും അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ ചാർജ് സ്വയം ഫീൽഡ് സൃഷ്ടിക്കുന്നു നമുക്ക് ഒരു ലൈൻ ചാർജിന്റെ കാര്യം എടുക്കാം നിങ്ങൾക്കറിയാം നാം മുൻപത്തെ ക്ലാസ്സുകളിൽ യൂണിറ്റ് നീളത്തിൽ ഉള്ള ചാർജിനെപ്പറ്റി പഠിച്ചു ഇത് അതിനു ചുറ്റും ഇത് പോലെ ഒരു ഫീൽഡ് സൃഷ്ടിക്കുന്നു എന്ന് കണ്ടു അപ്പോൾ ഇതിനു ചുറ്റും എവിടെയെങ്കിലും ഒരു ചാർജ് വച്ചാൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു ഞാൻ മുകളിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഇതാണ് ലൈൻ ചാർജ് നിങ്ങൾ കൂടുതൽ അകലേക്ക് പോകും തോറും രേഖകൾ എല്ലാം വെളിയിലേക്ക് പോകുന്നു മേഖലയുടെ അളവ് കുറയുന്നു ചിലപ്പോൾ ചെറിയ അമ്പുകളാൽ രേഖപ്പെടുത്താം കൂടുതൽ അകലേക്ക് പോകും തോറും അമ്പുകൾ വീണ്ടും ചെറുതായി വരുന്നു ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത് എന്തെന്നാൽ ഒരു ചാർജിനു ചുറ്റും എന്തോ ഉണ്ട് അതിനെ ഞാൻ ഇലക്ട്രിക്ക് ഫീൽഡ് എന്ന് വിളിക്കുവാൻ പോകുന്നു നൽകിയിട്ടുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷനിൽ നിന്നും ഞാൻ ഇത് എങ്ങിനെയാണ് കണക്കാക്കുന്നത് എന്നും നിങ്ങൾ കണ്ടു മറ്റൊന്ന് ഫീൽഡ് കളുടെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി അതിനെക്കുറിച്ചു കുറച്ചു സംസാരിക്കാം ഫീൽഡ് കളുടെ മറ്റ് ഉദാഹരണങ്ങൾ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം ഗുരുത്വആകർഷണ ഫീൽഡിന്റേത് ആണ് ഒരു മാസ്സ് ഉണ്ട് എങ്കിൽ അത് ഒരു ഗുരുത്വആകര്ഷണ ഫീൽഡ് സൃഷ്ടിക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയും എന്തെന്നാൽ എവിടെയെങ്കിലും ഒരു മാസ്സ് ഉണ്ട് ഞാൻ ഇവിടെ വേറൊരു മാസ്സ് വയ്ക്കുകയാണെങ്കിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു ഈ വെക്ടറിന്റെ അളവ് m ഗുണം ഈ ഗുരുത്വ ആകര്ഷണം നാം ഇതിനെ g ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു ഫീൽഡ് കളുടെ മറ്റൊരു ഉദാഹരണം ഒരു ദ്രാവകം ഒഴുകുന്നു എന്ന് വയ്ക്കുക ഇതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത എങ്ങിനെയാണ് മാറുന്നത് ഇത് ഒരു പക്ഷെ ഒരു ടാപ്പിൽ നിന്നും ഇത് പോലെ ഒഴുകാം ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ പൈപ്പിൽ നിന്നും ഒഴുകുന്ന ജലത്തിന് ഒരു വ്യത്യസ്ത വേഗതയാണുള്ളത് അസന്നിഗ്ധമായി ഓരോന്നും ഈ പാത ഇത് പോലെ പിന്തുടരുന്നു പക്ഷെ ഓരോ പോയിന്റിലും ഒരു വേഗതയുണ്ട് ഒരു വേഗത ഫീൽഡ് എന്നെനിക്ക് പറയാൻ കഴിയും എനിക്ക് ഇങ്ങിനെയും ചോദിക്കാം യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് സമയത്തിൽ ഈ ക്രോസ്സ് സെക്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ എന്താണ് മാസിന്റെ ശതമാനം അതിനെ കറന്റ് എന്ന് വിളിക്കുന്നു ഇത് എനിക്ക് ഒഴുക്കിന്റെ ദിശയും ദ്രാവകത്തിന്റെ അളവും നൽകുന്നു അപ്പോൾ കറന്റ് jr ഉം ഒരു ഫീൽഡാണ് ഇത് എല്ലായിടത്തും ഒരു വെക്ടർ അളവായി നില നിൽക്കുന്നു ഇവയാണ് ഫീൽഡിന്റെ ചില ഉദാഹരണങ്ങൾ രണ്ടു വ്യത്യസ്ത ചാർജുകളുടെ ഇടയിലുള്ള വൈദ്യുത ഫീൽഡ് എങ്ങിനെയായിരിക്കും എന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നൽകിക്കഴിഞ്ഞു